ഹലോ സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന്റെ ഈ വീഡിയോ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് പവർ അനാലിസിസ് അറ്റാക്ക്സിനെ കുറിച്ചാണ് ഇവിടത്തെ ഐഡിയ എന്നത് ഒരു ഡിവൈസ് ചില സീക്രെട്ട് വിവരങ്ങൾക്കനുസരിച്ചു എന്തെങ്കിലും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അറ്റാക്കർ പവർ ലൈൻസ് ടാപ്പ് ചെയ്ത് ഡിവൈസ് പവർ കൺസ്യൂമ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യുകയാണ് അറ്റാക്കർ ചെയ്യുന്നത് ഈ പവർ കൺസംപ്ഷൻ ഉപയോഗിച്ച് അറ്റാക്കർക്ക് പ്രോസസ്സർ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രഹസ്യ വിവരം കണ്ടെത്താൻ സാധിക്കും നമ്മൾ ഈ വീഡിയോ ലെക്ച്ചർ തുടങ്ങുന്നത് ഇത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ആകുന്നത് എന്ന ചോദിച്ചു കൊണ്ടും ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കുറച്ചു ടെക്നിക്കുകളെ കണ്ടുകൊണ്ടുമാണ് അവസാനം പവർ അനാലിസിസ് അറ്റാക്കിനുള്ള കൌണ്ടർ മെഷർസും കാണും CMOS ടെക്നോളജിയെ കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇന്ന് ഉപയോഗിപ്പെടുന്ന എല്ലാ ഡിജിറ്റൽ ഡിവൈസും പ്രവർത്തിക്കുന്നത് CMOS ടെക്നോളജി വച്ചാണ് CMOS എന്നത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടെക്നോളജി ഞാൻ എല്ലാം എന്ന പറയില്ല എന്നാൽ ഞാൻ കരുതുന്നു ഒരു വിധം എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും വർക്ക് ചെയ്യുന്നത് CMOS ടെക്നോളജി വച്ചാണ് CMOS ഫണ്ടമെന്റൽ ഗേറ്റ്സ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ഗേറ്റ് ഉപയോഗിക്കുന്നത് PMOS ഉം NMOS ട്രാന്സിസ്റ്ററും കപ്പ്ൾ ചെയ്ത് ഒരു ഇൻവെർട്ടർ ആക്കിയതാണ് അതുകൊണ്ട് തന്നെ ഒരു CMOS ഇൻവെർട്ടർ എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി നമുക്ക് കാണാം ഇതാണ് CMOS ഇൻവെർട്ടർ ഇതിൽ T1 T2 എന്ന രണ്ടു ട്രാന്സിസ്റ്ററും ഒരു ലോഡ് കപ്പാസിറ്റർ C ഉം ആണുള്ളത് ഇൻപുട്ട് 0 ആകുമ്പോൾ ട്രാന്സിസ്റ്റർ T1 ഓൺ ആകുകയും T2 ഓഫ് ആകുകയും ചെയ്യും തത്ഫലമായി കപ്പാസിറ്റർ ഈ Vdd യിലൂടെ ചാർജ് ആകുകയും ഔട്പുട്ട് 1 ലഭിക്കുകയും ചെയ്യുന്നു വേറൊരുതരത്തിൽ നോക്കിയാൽ നമ്മുടെ ഇൻപുട്ട് 1 ആയി സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാന്സിസ്റ്റർ T2 ഓൺ ആകും തത്ഫലമായി കപ്പാസിറ്റർ ട്രാന്സിസ്റ്റർ T2 യിലൂടെ ആകുന്നതിനാൽ ഔട്പുട്ട് 0 ആകും അതുകൊണ്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് കപ്പാസിറ്ററിൻറെ ചാർജിങും ഡിസ്ചാർജിങും മൂലം ഇൻപുട്ട് 0 ൽ നിന്ന് 1 ലേക്ക് മാറുമ്പോൾ ഔട്പുട്ട് 1 ൽ നിന്ന് 0 ലേക്ക് പോകും ഇപ്പോൾ നമ്മൾ ഈ CMOS ഇൻവെർട്ടറിന്റെ പവർ കൺസംപ്ഷൻ നോക്കിയാൽ ഇത് പോലിരിക്കും കപ്പാസിറ്റർ CL ചാർജ് ചെയ്യുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ഉള്ളപ്പോഴൊക്കെ പവർ കൺസ്യൂമ് ചെയ്യപ്പെടും വേറൊരുതരത്തിൽ പറഞ്ഞാൽ ഔട്പുട്ടിൽ 0 ൽ നിന്ന് 1 ലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ ഒരു പരിവർത്തനം വരുമ്പോഴൊക്കെ പവർ ഉപഭോഗം ഉണ്ടാകും ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഈ ഇൻവെർട്ടറിന്റെ ഔട്പുട്ട് നോക്കാം ഈ 0 ൽ നിന്ന് 1 ലേക്ക് പരിവർത്തനം നടക്കുമ്പോൾ ഈ പ്രത്യേക കേസിൽ പവർ ഉപഭോഗം നടക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഈ ഡിവൈസിന്റെ പവർ ലൈൻസ് ടാപ്പ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരു ഓസിലോസ്കോപ് ഉപയോഗിച്ച് പവർ ഉപഭോഗം നിരീക്ഷിക്കാൻ കഴിയും അതായത് ഓസിലോസ്കോപ് ഈ ഡിവൈസിന്റെ ഡൈനാമിക് പവർ കൺസംപ്ഷൻ നൽകും ഇന്നത്തെകാലത്തു ഒരുമാതിരി എല്ലാ ഇലക്ട്രോണിക് സർക്യൂറ്റ്സും സിൻക്രണസ് ഡിജിറ്റൽ സർക്യൂട്സ് ആണ് ഈ സർക്യൂട്ടുകൾക്കു ഒരു ഇൻപുട്ട് ആയി ക്ലോക്ക് ഉണ്ടാകും ഈ ക്ലോക്ക് ട്രാന്സിഷന് അനുസരിച്ചായിരിക്കും ഒരുമാതിരി എല്ലാ പ്രവർത്തനവും ഉദാഹരണത്തിന് ഇവിടെ ഈ ഡിവൈസിലേക്കു ക്ലോക്ക് അയക്കുന്നുണ്ട് കൂടാതെ രണ്ടു ഇൻപുട്ട്സ് 0 ഉം 1 ഉം ഉണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാ ക്ലോക്ക് ട്രാന്സിഷൻസിലും ഡാറ്റ 0 ലും ഡാറ്റ 1 ലും ട്രാന്സിഷൻ ഉണ്ടായേക്കാം സാധ്യത ഉണ്ട് ഈ പ്രത്യേക കേസിൽ നമ്മൾ ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് ആണ് പരിഗണിക്കുന്നത് ഈ പോസിറ്റീവ് എഡ്ജിൽ മാത്രമാണ് ഡാറ്റ ട്രാന്സിഷൻ നടക്കുന്നത് ആയതിനാൽ നമ്മൾ ഈ ഡിവൈസിന്റെ പവർ ഉപഭോഗം നോക്കുമ്പോൾ പവർ എന്നത് നടക്കുന്ന ട്രാന്സിഷൻ ടൈപ്പിന്റെ ഫങ്ക്ഷൻ ആണെന്ന് ഉദാഹരണത്തിന് ഇവിടെ ഡാറ്റാ 0 ഉം ഡാറ്റ 1 ഉം ഉണ്ട് രണ്ടും 0 ൽ നിന്ന് 1 ലേക്ക് ട്രാൻസിറ്റ് ചെയ്യപ്പെടും ഈ ക്ലോക്ക് പൾസ്സിൽ നമ്മൾ മുൻപത്തെ സ്ലൈഡുകളിൽ കണ്ടതുപോലെ ഈ ട്രാന്സിഷൻ നടക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും പവർ ഉപഭോഗം ഉണ്ടാകും അപ്പോൾ മൊത്തം പവർ ഉപഭോഗം എന്നത് ഈ രണ്ടു ട്രാന്സിഷന്റെയും സങ്കലനം ആണ് ഇവിടെ പവർ ഉപഭോഗത്തിൽ ഒരു വലിയ പീക്ക് കാണാം ഈ ഓരോ കേസിലും കപ്പാസിറ്റർ ചാർജ് ചെയ്യപെടുന്നത് മൂലമാണത് ഇപ്പോൾ ഈ ക്ലോക്ക് പൾസ്സിൽ 0 ൽ നിന്ന് 1 ലേക്ക് ഒരു ട്രാന്സിഷൻ ഉണ്ടായപ്പോൾ ഈ ക്ലോക്ക് പൾസ്സിൽ ഡാറ്റ 0 ക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാൽ ഡാറ്റ 1 0 ലേക്ക് ട്രാൻസിറ്റ് ആയി ഇപ്പോൾ നമ്മൾ ഇത് ട്രാൻസിസ്റ്റർ ആയി കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് പവർ ഉപഭോഗം ഈ ഡിസ്ചാർജ് മൂലം നെഗറ്റീവ് ആകുകയും ചെയ്യും ഈ ട്രാന്സിഷനിൽ നമുക്കുള്ള ഡാറ്റ 0 0 ൽ നിന്ന് 1 ലേക്ക് നീങ്ങും അതുകൊണ്ട് കപ്പാസിറ്ററിൻറെ ഡിസ്ചാർജിങ് പവർ ഉപഭോഗം കാണിക്കും ഇപ്പോൾ ഇവിടെ വീണ്ടും ഡാറ്റ 1 0 ൽ നിന്ന് 1 ലേക്ക് നീങ്ങും അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായി പവർ ഉപയോഗിക്കും അതുകൊണ്ട് ആദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഡിവൈസിലെ പല ഗേറ്റുകളിൽ സന്നിഹിതമായിരിക്കുന്ന കപ്പാസിറ്ററുകളുടെ ചാർജിങും ഡിസ്ചാർജിങും അനുസരിച്ചാണ് പവർ ഉപഭോഗം രണ്ടാമതായി ഉപഭോഗത്തിന്റെ അളവ് എത്ര ഗേറ്റുകളാണ് ഈ ട്രാന്സിഷനിൽ പങ്കാളികളാകുന്നത് എന്ന ആശ്രയിച്ചിരിക്കും അതായത് ഇവിടെ ഈ 0 ൽ നിന്ന് 1 ലേക്കുള്ള മാറ്റത്തിൽ രണ്ടു ഗേറ്റുകൾ ഉണ്ട് അപ്പോൾ രണ്ടു കപ്പാസിറ്ററുകളും ചാർജ് ചെയ്യപ്പെടുന്നത് കൊണ്ട് പവർ ഉപഭോഗം കൂടും ഈ ക്ലോക്ക് പൾസ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ ആണ് 0 ൽ നിന്ന് 1 ലേക്ക് പോകുന്നത് ആയതിനാൽ പവർ ഉപഭോഗം താരതമ്യേന കുറവായിരിക്കും ഇവിടെ കാണുന്നതാണ് പവർ ഉപഭോഗ അറ്റാക്കിന്റെ അന്തസത്ത അറ്റാക്കർ ഊഹിക്കുന്നത് ഒരു ഡിവൈസിൽ ഉണ്ടാകുന്ന എല്ലാ സിഗ്നലുകളിലുമുള്ള ഓരോ ട്രാന്സിഷൻസും ഈ പൊസിഷനിൽ ഒരു ഡിവൈസ് വച്ച് നോക്കാൻ കഴിയില്ല എന്നാണ് ആയതിനാൽ മുൻപത്തെ സ്ലൈഡിൽ കണ്ട എല്ലാ ഇടയ്ക്കു സംഭവിക്കുന്ന ട്രാന്സിഷൻസും മുഴുവനായി ബ്ലാക്ക്ഡ് ഔട്ട് ആകുകയാണ് ഇവിടെ അറ്റാക്കർക്കു സാധ്യമാകുന്നത് എന്താന്നെന്നുവച്ചാൽ ക്ലോക്ക് സോഴ്സ് വന്നാൽ ഡിവൈസിന്റെ പവർ ഉപഭോഗം ടെർച്ചയായും നിരീക്ഷിക്കാൻ കഴിയും അല്ല ഡിവൈസിനും എക്സ്റ്റർണൽ ബാറ്റെറിയോ പവർ സോഴ്സൊ അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ഈ ക്ലോക്ക് സോഴ്സ് എപ്പോഴും അറ്റാക്കർക്കു കാണണമെന്നില്ല എന്നാൽ എല്ലാ ഡിവൈസിനും ഒരു എക്സ്റ്റർണൽ പവർ സോഴ്സ് ഉണ്ടാകണമെന്നതിനാൽ അറ്റാക്കർക്കു ഡൈനാമിക്കലി ഈ ഡിവൈസിന്റെ പവർ ഉപഭോഗം നിരീക്ഷിക്കാൻ കഴിയും ഡിവൈസിന്റെ പവർ ഉപഭോഗം നിരീക്ഷിച്ചു അതിൽ സന്നിഹിതമായിരിക്കുന്ന ഇന്റർണൽ രഹസ്യങ്ങൾ പ്രവചിക്കുക എന്നതാണ് പവർ അനാലിസിസ് ആറ്റക്കിന്റെ ഐഡിയ ഉദാഹരണത്തിന് പവർ അനാലിസിസ് ആപ്പ്ളിക്കേഷന്റെ പ്രശസ്തമായ അപ്ലിക്കേഷൻ ക്രിപ്റ്റോഗ്രാഫിക് സെഫേഴ്സിൽ ആണ് അറ്റാക്കറുടെ അടുത്ത് ക്രിപ്റ്റോഗ്രാഫിക് ഓപ്പറേഷനിൽ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടെന്നു അനുമാനിക്കാം കീ രഹസ്യമായി അതിനകത്തു സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സമയം എൻക്രിപ്ഷനോ ഡീക്രിപ്ഷനോ ട്രിഗ്ഗർ ചെയ്യുമ്പോൾ ഈ കീ ഇന്റർണൽ സ്റ്റോറേജിൽ നിന്ന് റീഡ് ചെയ്തു ഉപയോഗിക്കും അറ്റാക്കറുടെ ഉദ്ദേശം എന്നത് ഡീക്രിപ്ഷൻ അല്ലെങ്കിൽ എൻക്രിപ്ഷൻ നടക്കുമ്പോൾ ഈ ഡിവൈസിന്റെ പവർ ഉപഭോഗം നിരീക്ഷിക്കുക എന്നതാണ് എന്നിട്ട് ഈ ഡിവൈസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന രഹസ്യ കീ തിരിച്ചറിയാൻ ശ്രമിക്കും ഒരുമാതിരി എല്ലാ പവർ അനാലിസിസ് അറ്റാക്കിന്റെയും അനുമാനം എന്നത് അറ്റാക്കർക്കു എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്ന ഇൻപുട്ട് മെസ്സേജ് മാനിപുലേറ്റ് ചെയ്യാനോ നിരീക്ഷിക്കണോ സാധിക്കും എന്നാണ് അല്ലെങ്കിൽ ഡിവൈസിന്റെ ഔട്പുട്ട് അതായത് എൻക്രിപ്റ്റഡ് മെസേജ് അങ്ങനെ പവർ അനാലിസിസ് അറ്റാക്കിന്റെ പ്രധാന അനുമാനങ്ങൾ കാണാം ആദ്യമായി അറ്റാക്ക് ചെയ്യേണ്ട ഡിവൈസ് അറ്റാക്കറുടെ അടുത്ത് ഉണ്ടാവണം അത് അയാൾക്ക് പവർ ഓൺ ചെയ്യാൻ കഴിയണം അയാൾക്ക് ആ ഡിവൈസിലേക്കുള്ള പല പല ഇൻപുട്ടുകളും അതിൽ നിന്നുള്ള ഔട്പുട്ടുകളും നിരീക്ഷിക്കാൻ കഴിയും അയാൾക്ക് പവർ ലൈൻസ് ടാപ്പ് ചെയ്ത് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ നടക്കുമ്പോൾ ഉള്ള പവർ കൺസംപ്ഷൻ ഒരു ഓസിലോസ്കോപ്പ് വച്ച് നിരീക്ഷിക്കാൻ കഴിയണം പല തരം പവർ അനാലിസിസ് അറ്റാക്സ് ഉണ്ട് വളരെ ലളിതമായ സിമ്പിൾ പവർ അനാലിസിസ് രണ്ടാമതായി ഡിഫികൾട്ട് ആയ ഡിഫറെൻഷ്യൽ പവർ അനാലിസിസ് സംരക്ഷിക്കാനും ബുദ്ധിമുട്ടാണ് അവസാനം ടെമ്പ്ലേറ്റ് അടിസ്ഥാനമാക്കിയുള്ളത് ഏറ്റവും ശക്തമായത് ഇപ്പോൾ ഈ സിമ്പിൾ പവർ അനാലിസിസിന് എല്ലാ വിധത്തിലുള്ള ക്രിപ്റ്റോഗ്രാഫിക് സൈഫറുകളിലും പ്രയോഗിക്കാൻ പറ്റിയെന്നുവരില്ല അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസിൽ പ്രവർത്തിക്കുന്ന ആപ്പ്ളിക്കേഷനുകളിൽ എന്നാൽ അടിസ്ഥാനപരമായി ആ പ്രോഗ്രാമ്മിന്റെ ചില ആറ്റ്റിബ്യൂട്ട്സ് ഉപയോഗപ്പെടുത്തും ഇനി നമുക്ക് സിമ്പിൾ പവർ അനാലിസിസ് നോക്കാം നമുക്ക് താഴെ പറയുന്ന ഓപ്പറേഷൻ ചെയുന്ന ഒരു ഡിവൈസ് ഉണ്ട് സ്ക്വെറും മൾട്ടിപ്ലൈയും ആണ് ഓപ്പറേഷൻ ഇത് RSA പോലുള്ള ക്രിപ്റ്റോഗ്രാഫിക് സൈഫറുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ ഈ അൽഗോരിതം ഇമ്പ്ളിമെന്റ് ചെയ്തിരിക്കുന്ന ഈ ഡിവൈസ് xcn എന്നീ മൂന്നു പാരാമീറ്റർ എടുക്കുന്നുണ്ട് ലക്ഷണപരമായി C യായിരിക്കും അറ്റാക്കർക്കു അറിയേണ്ട രഹസ്യ കീ ഈ അൽഗോരിതം ആദ്യം Z 1 ആയി ഇനിഷ്യലൈസ് ചെയ്യും അതിൽ ഒരു ലൂപ്പ് ഉണ്ട് i l 1 മുതൽ 0 വരെ ഇതിൽ l എന്നത് C യുടെ ലെങ്ത് ആണ് അതായത് ബിറ്റുകളുടെ എണ്ണം l 1 എന്നത് C യുടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനു അനുസൃതമായതാണ് C0 എന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനു അനുസൃതമായതാണ് ലൂപ്പിന്റെ ഓരോ ഇറ്ററേഷനിലും രണ്ടു ഓപ്പറേഷൻ നടക്കുന്നത് കാണാം ആദ്യത്തേത് Z ഇരട്ടിപ്പിക്കൽ ആണ് അതായത് Z2 mod n Ci 1 ആണെങ്കിൽ അതായത് C ലെ i സ്ഥാനത്തുള്ള ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടിയുണ്ട് ഇത് C ലെ എല്ലാ ബിറ്റിനും തുടരും ഇപ്പോൾ അറ്റാക്കറുടെ കൈയിൽ ഈ അൽഗോരിതം ഇമ്പ്ളിമെന്റ് ചെയ്യപ്പെട്ട ഡിവൈസ് ഉണ്ട് നമുക്കനുമാനിക്കാം അറ്റാക്കർക്കു xn എന്നിവയെകുറിച്ചു അറിവ് ഉണ്ടെന്നു ഈയൊരു കേസിൽ അത് പ്രധാനമല്ലെങ്കിൽ പോലും എന്നാൽ അറ്റാക്കർക്കു ആ ഡിവൈസ് പവർ ഓൺ ചെയ്യാൻ കഴിയണമെന്നത് പ്രധാനമാണ് അയാൾക്ക് ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയും ഈ ഡിവൈസിന്റെ പവർ ഉപഭോഗം നിരീക്ഷിക്കാൻ കഴിയുകയും വേണം ഇപ്പോൾ നമുക്ക് കാണാം Ci യുടെ വാല്യൂ അനുസരിച്ചു പവർ മാറിമാറി വരും Ci യുടെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ ഈ സ്ക്വെർ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ Ci യുടെ വാല്യൂ 1 ആണെങ്കിൽ സ്ക്വെർ ഓപ്പറേഷനും square operation അതിലിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷനും നടക്കും Ci 0 ഉം 1 ഉം ആയിരിക്കുമ്പോൾ അവയുടെ വ്യത്യാസം ഡിവൈസിന്റെ പവർ ഉപഭോഗം കാണിക്കും പവർ എങ്ങനെയായിരിക്കുമെന്നതാണ് ഇത് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം ചില മേഖലകൾക്ക് മറ്റു മേഖലകളെ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ സവിശേഷതയുള്ള പവർ പ്രൊഫൈൽ ഉള്ളതായി കാണാം ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അറ്റാക്കർ നിരീക്ഷിക്കുന്നത് സമത്തിനനുസരിച്ചുള്ള പവർ ഉപഭോഗമാണ് അതായത് അറ്റാക്കർ ഈ പവർ പ്രൊഫൈൽ നിരീക്ഷിച്ചിട്ട് രഹസ്യമായ Ci വാല്യൂസ് കണ്ടെത്തും ഇങ്ങനെ അറ്റാക്കർ C യുടെ എല്ലാ ബിറ്റുകളും ഒപ്പിക്കും ഉദാഹരണത്തിന് ഇവിടെ ഒരു സ്ക്വെർ ഓപ്പറേഷൻ മാത്രമേ നടന്നിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞു C യുടെ വാല്യൂ 0 ആണെന്ന് മനസ്സിലാക്കും മറ്റേവശത്തു അയാൾ കാണുന്നത് ഈ മേഖല 1 വരുമ്പോൾ ഉള്ള കാരക്റ്ററിസ്റ്റിക് ആണ് ആകയാൽ അയാൾക്ക് ഈ ബിറ്റ് 1 ആണെന്ന് ഊഹിക്കാൻ കഴിയും അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ ഈ രീതിയിൽ അറ്റാക്കർക്കു പവർ ഉപഭോഗം നിരീക്ഷിച്ചുകൊണ്ട് പവർ ഉപഭോഗത്തിൽ നിന്ന് രഹസ്യ കീ റെയ്ഡ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇത് വളരെ ലളിതമായ ഒരു അറ്റാക്ക് ആണ് കാലങ്ങൾക്കിപ്പുറം ഈ അൽഗോരിതം ശക്തമായി ഇമ്പ്ളിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ വിവരിച്ച സിമ്പിൾ പവർ അറ്റാക്ക് ആധുനിക ഡിവൈസുകൾക്കു പ്രായോഗികമല്ല പല ആധുനിക ക്രിപ്റ്റോഗ്രാഫിക് ഡിവൈസുകൾ ഇങ്ങനെയുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിക്കാത്തതിന് കാരണം പവറിലൂടെ ഉള്ള ചോർച്ച സ്പഷ്ടമായതാണ് അതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായ അറ്റാക്ക് എന്നറിയപ്പെടുന്നത് ഡിഫറൻഷ്യൽ പവർ അനാലിസിസ് അറ്റാക്ക് ഇതിന്റെ പ്രവർത്തനം സിമ്പിൾ പവർ അനാലിസിസ് അറ്റാക്ക് പോലെ അല്ല ഇതിന്റെ മുഖ്യമായ ആശയം കുറെ പവർ ട്രേസ്സുകൾ ശേഖരിച്ചു അതിൽ പല തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി അതിൽ പ്രവചിക്കുക എന്നതാണ് ഇത് സാധാരണയായി DPA എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ അനുമാനമനുസരിച്ചു അറ്റാക്കറുടെ കൈയിൽ ഡിവൈസ് ഉണ്ട് അതിനുള്ളിൽ ഉള്ള രഹസ്യ കീ ആണ് അറ്റാക്കർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായി അറ്റാക്കർ ഈ ഡിവൈസിന്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നു അറ്റാക്കർക്കു രഹസ്യ കീ എന്താണെന്നു അറിയില്ല എന്നതൊഴിച്ചാൽ ഈ ഡിവൈസിൽ നടക്കുന്ന ബാക്കിയുള്ള എല്ലാ പ്രവർത്തനവും അറിയാം ഇപ്പോൾ താഴെ പറയുന്ന പോളാണ് അറ്റാക്ക് നടക്കുന്നത് ആദ്യം ഈ ഡിവൈസിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി എന്നിട്ട് അറ്റാക്കർ രഹസ്യ കീ കൂടി ഊഹിച്ചെടുക്കുന്നു പിന്നെ കുറെ ഇൻപുട്ടുകൾ ഉണ്ടാക്കി അത് ഡിവൈസിനു നൽകി ടെസ്റ്റ് ചെയ്യുകയും ഡിവൈസിന്റെ മോഡലും നൽകുന്നു ടെസ്റ്റ് ചെയ്യുന്ന ഡിവൈസിന്റെ ഡാറ്റ നൽകുമ്പോൾ അത് ആ ഇൻപുട്ട് ഡാറ്റയിന്മേൽ കമ്പ്യൂട്ടിങ് നടത്തുന്നു അപ്പോൾ അയാൾ ഓസില്ലോസ്കോപ് ഉപയോഗിച്ച് പവർ ഉപഭോഗം രേഖപ്പെടുത്തുന്നു ഇതുകൂടാതെ ഡിവൈസ് മോഡൽ കൂടി ഉപയോഗിച്ച് ആ ഡിവൈസിന്റെ ഹൈപോതെറ്റിക്കൽ പവർ കൺസംപ്ഷൻ അറിയുന്നു ഓസില്ലോസ്കോപ്പിൽ നിന്ന് ലഭിക്കുന്ന പവർ ഉപഭോഗം നോട്ട് ചെയ്യണം രഹസ്യ കീ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് റിയൽ പവർ ഉപഭോഗം ആയിരിക്കും അതുകൊണ്ട് ഡിജിറ്റൽ ഓസില്ലോസ്കോപ് പോലുള്ള അളവ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത് രേഖപ്പെടുത്തേണ്ടത് അതേസമയം ഡിവൈസിന്റെ മോഡലിൽ നിന്ന് പവർ ഉപഭോഗം ലഭിക്കുന്നത് എന്തെങ്കിലും കണക്കുകൂട്ടലുകൾ മുഖാന്തിരമോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അനാലിസിസ് വഴിയോ ആണ് ഈ പവർ മോഡൽ ഉപയോഗിക്കുന്നത് അറ്റാക്കർ ഊഹിച്ചെടുത്ത ഗെസ്ഡ് കീ ആണ് ഇപ്പോൾ അയാളുടെ കൈയിൽ രണ്ടു പവർ ഉപഭോഗങ്ങൾ ഉണ്ട് റിയൽ കീ വച്ചുള്ള ശരിയായ പവർ കൺസംപ്ഷനും ഗെസ്ഡ് കീ ഉപയോഗിച്ചുള്ള ഹൈപോതെറ്റിക്കൽ പവർ കൺസംപ്ഷനും അതുകൊണ്ട് അയാൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇവയിൽ നടത്തിയിട്ട് റിസൾട്ട് താരതമ്യം ചെയ്യും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ താരതമ്യം പറയും ഗെസ്ഡ് കീ ശരിയായിരുന്നോ അതോ തെറ്റാണോ എന്ന് ഇനി നമുക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം എങ്ങനെയാണ് ഈ ഡിഫ്റൻഷ്യൽ അനാലിസിസ് അറ്റാക്ക് പ്രവർത്തിക്കുന്നത് എന്ന് ഈ സാഹചര്യം വിവരിക്കാനായി നമുക്ക് ഒരു ചെറിയ സർക്യൂട്ട് എടുക്കാം നമ്മൾ നോക്കുന്ന സർക്യൂട്ട് ഏതാണ്ട് ഇതുപോലുള്ളതാണ് ഇവിടെ നമുക്കൊരു രജിസ്റ്റർ R ഉം F എന്ന ഫങ്ക്ഷനും ഉണ്ട് ഈ ഫങ്ക്ഷന്റെ ഔട്പുട്ട് P ഈ മൾട്ടിപ്ലെക്സറി ലൂടെ വന്നു ഈ രെജിസ്റ്ററിൽ സ്റ്റോർ ആകും ഡിഫ്റൻഷ്യൽ പവർ അനാലിസിസ് അറ്റാക്കിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനായി ഇവിടെ കാണുന്നപോലത്തെ ഒരു ചെറിയ സർക്യൂട്ട് എടുക്കാം ഇത് P യും ഒരു സീക്രെട്ട് K യും ഇൻപുട്ട് ആയി എടുത്തിട്ട് ഈ സീക്രെട്ട് K ന്മേൽ ഇറ്ററേറ്റിവ് രീതിയിൽ പ്രവർത്തിക്കുന്നു അതായത് ആദ്യത്തെ ക്ലോക്ക് പൾസിൽ ഇൻപുട്ട് P എടുത്തിട്ട് റെജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം എന്നിട്ട് അടുത്ത ക്ലോക്കിൽ ഈ P fലേക്ക് ഫെഡ് ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീനിയർ ഫങ്ക്ഷൻ ആണ് f അതാണ് P യുടെ വാല്യൂവിലും രഹസ്യ കീ K ലും പ്രവർത്തിക്കുന്നത് ഇനി f ന്റെ ഔട്പുട്ട് ഈ മൾട്ടിപ്ലെക്സറിലേക്ക് ഫെഡ് ചെയ്ത് ഈ റെജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും അടുത്തടുത്ത ക്ലോക്ക് പൾസുകളിൽ ഈ റെജിസ്റ്റർ f ലേക്ക് ഫെഡ് ചെയ്ത് കീക്കും റെജിസ്റ്റർ കൺടെന്റ്സിനും അനുസരിച് f ൻറെ ഓപ്പറേഷൻ നടത്തി റിസൾട്ട് റെജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും അങ്ങനെ അത് ഇറ്ററേറ്റിവ് രീതിയിൽ പ്രവർത്തിക്കും ആദ്യത്തെ ഇറ്ററേഷൻ P ക്ക് അനുസരിച്ചും ബാക്കിയുള്ളവ മുമ്പത്തെ ഇറ്ററേഷന് അനുസരിച്ചുമാണ് നടക്കുക F ന്റെ ഔട്പുട്ട് ആയ C യെ കുറിച്ചു അറ്റാക്കർക്കു അറിവില്ലെന്ന് അനുമാനിക്കാം അയാൾ K യുടെ വാല്യൂ ലഭിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞത് പോലെ ഡിഫ്റൻഷ്യൽ പവർ അനാലിസിസ് ആദ്യത്തെ സ്റ്റെപ് എന്നത് ഡിവൈസിന്റെ മോഡൽ ഉണ്ടാക്കലാണ് സാധാരണയായി അതിനു രണ്ടു രീതികൾ ഉണ്ട് ഹാമ്മിങ് ഡിസ്റ്റൻസ് മോഡലും ഹമ്മിങ് വെയിറ്റ് മോഡലും ഹാമ്മിങ് വെയിറ്റ് മോഡലിൽ അത് ഈ റെജിസ്റ്റർ R വീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് അതിലെ 1 കളുടെ എണ്ണം എടുക്കും ഉദാഹരണത്തിന് രജിസ്റ്റർ R ലെ പ്രാരംഭ വാല്യൂ 1011 എന്നിരിക്കട്ടെ അടുത്ത ക്ലോക്ക് പൾസിൽ അത് 1101 സ്ണെന്നും ഇരിക്കട്ടെ ഇനി നമുക്ക് എത്ര 1 ഉണ്ടെന്ന് നോക്കാം ഇവിടെ 3 1 കൾ ഉണ്ട് അപ്പോൾ നമുക്ക് പറയാം ഈ മോഡലിന്റെ ഹൈപോതെറ്റിക്കൽ പവർ ഇപഭോഗം എന്നത് ഈ ക്ലോക്ക് പൾസിൽ 3 ആണെന്ന് ഇനി അടുത്ത ക്ലോക്ക് പൾസിൽ R ന്റെ വാല്യൂ 1001 ആണെങ്കിൽ ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗം 2 ആയിരിക്കും അതാണ് ഹാമ്മിങ് വെയിറ്റ് മോഡലും ഇവിടെ റെജിസ്റ്ററിലെ കൺടെന്റസ് എന്താണെന്നു അറ്റാക്കർ കണ്ടുപിടിക്കുന്നില്ല റെജിസ്റ്ററിൽ എന്തായിരിക്കുമെന്ന് പ്രവചിക്കുക ആൺ ചെയ്യുന്നത് ഈ തരത്തിലുള്ള അറ്റാക്കുകളിൽ പതിവായി ഉപയോഗിച്ച് വരുന്നത് മറ്റേ മോഡൽ ആയ ഹാമ്മിങ് ഡിസ്റ്റൻസ് മോഡലും ആണ് ഇവിടെ നമ്മൾ രണ്ടു ക്ലോക്ക് പൾസുകൾക്കിടക്കു അത്ര ബിറ്റ് ടോഗ്ൾ ചെയ്യപെടുന്നുണ്ടെന്നു നോക്കുകയാണ് ചെയ്യുന്നത് പിന്നെയും നമ്മൾ റെജിസ്റ്റർ നോക്കി രണ്ടു ക്ലോക്ക് പൾസുകൾക്കിടക്കു എത്രയെണ്ണം ടോഗ്ൾ ചെയ്തു എന്ന നോക്കും അതായതു പ്രാരംഭത്തിൽ R ന്റെ വാല്യൂ 1011 ഉം അടുത്ത ക്ലോക്ക് പൾസിൽ അത് 1101 ആയെന്നിരിക്കട്ടെ ഇവിടെ രണ്ടു ബിറ്റ് ടോഗ്ൾ ചെയ്തു അപ്പോൾ ഹാമ്മിങ് ഡിസ്റ്റൻസ് 2 ആണ് ഇതുപോലെ നമ്മൾ ഈ രണ്ടു അടുത്തടുത്ത ക്ലോക്ക് പൾസ് എടുത്താൽ റെജിസ്റ്റർ വാല്യൂ 1001 ആയി മാറിയതായി കാണാം അപ്പോൾ ഹാമ്മിങ് ഡിസ്റ്റൻസ് 1 ആണ് ഈ റീത്തിയിലാണ് ഈ ഡിവൈസ് ഇറ്ററേറ്റിവ് ആയി പ്രവർത്തിക്കുന്നത് ഇവിടെ നമുക്ക് ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗത്തിന്റെ ഒരു ശ്രേണി ലഭിക്കും 2131 അങ്ങനെ പോകുന്നു ഹാമ്മിങ് വെയിറ്റ് മോഡലിന്റെ ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗം 3213 അങ്ങനെയായിരുന്നു ഇപ്പോൾ നമുക്ക് ഡിഫ്റൻഷ്യൽ പവർ അനാലിസിസ് അറ്റാക്ക് നോക്കാം ഇവിടെ നമുക്ക് താല്പര്യം ആദ്യത്തെ ഇറ്ററേഷൻ ആണ് അതിൽ P എന്ന ഇൻപുട്ട് റെജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് അതിന്മേൽ f എന്ന ഫങ്ക്ഷൻ ഓപ്പറേറ്റ് ചെയ്യും അതായാത് f ഇൻപുട്ടും കീയും എടുത്ത് അറ്റാക്കർക്കു കാണാൻ കഴിയാത്ത ഇടക്കുള്ള റിസൾട്ട് തരും ഈ ചിത്രം ലഘൂകരിക്കാനായി നമ്മൾ കാണിക്കുന്നത് ഇൻപുട്ട് സീക്രെട്ട് കീ f ന്റെ ഓപ്പറേഷൻ അതിനനുസൃതമായ ഇടക്കുള്ള വാല്യൂ C എന്നിവയാണ് ഇവിടെ അറ്റാക്കർക്കു ചെയ്യാൻ പറ്റുന്നത് കീ ഊഹിച്ചെടുക്കുക എന്നതാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് PKC എന്നിവ 4 ബിറ്റ്സ് ആണെന്നും കീയുടെ വാല്യൂ 1010 ആണെന്നും ആണ് മാത്രമല്ല അറ്റാക്കർക്കു പ്ലെയിൻ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കാനും ഈ ഡിവൈസിലേക്കു അയക്കാനും കഴിവുണ്ടെന്നും ഊഹിക്കാം ഫങ്ക്ഷന് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറ്റാക്കർ ആയതുകൊണ്ട് പവർ ഉപഭോഗം അയാൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ഇവിടെ നമ്മൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട അനുമാനം എന്നത് അറ്റാക്കർക്കു K യോ C യോ അറിയില്ലെങ്കിലും f ന്റെ പ്രവർത്തനം നന്നായി അറിയാം എന്നതാണ് എന്നാൽ അയാൾ K ടിയുടെ വാല്യൂ ഊഹിക്കുന്നതിനാൽ C കണ്ടുപിടിക്കാൻ കഴിയും പ്ലെയിൻ ടെക്സ്റ്റ് P അറിയാവുന്നതുകൊണ്ടും കീ ഗെസ്സ് ചെയ്തെടുത്തതിനാലും C അയാൾക്ക് കംപ്യൂട്ട് ചെയ്യാൻ സാധിക്കും അറ്റാക്ക് നടക്കുന്നത് ഇങ്ങനെയാണ് അറ്റാക്കർ P യുടെ ഒരു വാല്യൂ തിരഞ്ഞെടുത്ത് ഡിവൈസിലേക്ക് അയക്കുന്നു PK എന്നിവയിൽ ഡിവൈസ് കംപ്യുറ്റേഷൻ നടത്തി പവർ ഉപഭോഗം നിരീക്ഷിക്കുന്നു ട്രേസ് ചെയ്തെടുത്ത പവർ ഉപഭോഗം ഇങ്ങനെയായിരിക്കും ഇതുകൂടാതെ അയാൾ കീ ഗെസ്സ് ചെയ്യും ഇപ്പോൾ അത് 1111 ആണ് അതിനനുസരിച്ചു അയാൾ C വാല്യൂ കംപ്യൂട്ട് ചെയ്യും എന്നിട്ട് ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗം ഉണ്ടാക്കിയെടുക്കും ഹാമ്മിങ് വെയിറ്റ് മോഡലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാമ്മിങ് വെയിറ്റ് മോഡൽ ആയതിനാൽ ഹൈപോതെറ്റിക്കൽ പവർ ആയി C ലെ 1 കളുടെ എണ്ണം എടുക്കും ഇവിടെ അത് 4 ആയതിനാൽ ഹൈപോതെറ്റിക്കൽ പവർ 4 ആണ് ഇത് കുറെ പ്രാവശ്യം തുടരും ഓരോ തവണയും ഓരോ P വാല്യൂ തിരഞ്ഞെടുത്ത ഡിവൈസിനു നൽകും എന്നിട്ട് ശരിക്കുള്ള പവർ ഉപഭോഗം രേഖപ്പെടുത്തും പിന്നെ ഊഹിച്ച കീ ആയ 1111 ന് ഉപയോഗിച്ച C കണ്ടുപിടിച്ചു ഹാമ്മിങ് വെയിറ്റിന് അനുസരിച്ചു ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗം കണ്ടെത്തും അടുത്തതായി ശരിക്കുള്ള പവർ ഉപഭോഗവും ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തണം ഇവിടെ കാണുന്ന ഓരോ റോയും P യും ഓരോ ഇൻപുട്ട് വാല്യൂകൾക്കുള്ളതാണ് ഓരോന്നിനും ഒരു ഹൈപോതെറ്റിക്കൽ പവറും റിയൽ പവറും ഉണ്ട് ഇവിടെ ഇത് മാറുന്നുണ്ട് പക്ഷെ ഇത് സ്ഥിരമാണ് ഓരോ പോയിന്റിലും അറ്റാക്കർ ഈ രണ്ടു പവറും താരതമ്യം ചെയ്യും ഉദാഹാരണത്തിന് അയാൾ പിയർസൺ കോറിലേഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കും ഓരോ പോയിന്റിലും ഈ വേവ് ഫോമിൽ ഇവിടെ കാണുന്ന ഈ ചുവപ്പു ലൈൻ ഈ മൂന്നു പോയിന്റുകൾക്കും ഈ ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗത്തിലുമായി അയാൾ നടത്തിയ ഒരു പ്രത്യേക താരതമ്യത്തിന്റെ ഭാഗമാണ് അയാളിവിടെ മാക്സിമം കോറിലേഷൻ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഈ പോയിന്റ് മാക്സിമം കോറിലേഷൻറെ ആണ് ഈ കേസിൽ നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ഊഹിച്ചെടുത്ത കീ 1111 ആയിരുന്നു അത് അയാൾക്കറിയാത്തതിനാൽ അയാൾ K യുടെ ഓരോ സാധ്യതയും നോക്കികൊണ്ടിരിക്കുന്നു അങ്ങനെ അയാൾക്കു ഓരോ സാധ്യമായ K യുടെ വാല്യൂനും ഇതുപോലൊന്ന് ലഭിക്കും ഇങ്ങനെ ഒരു P ക്ക് ഊഹിച്ചെടുത്ത K വാല്യൂകൾക്കനുസരിച് ലഭിക്കുന്ന ശരിയായ പവർ ഉപഭോഗത്തിൻറെയും ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗത്തിൻറെയുമായി ഒരു പട്ടിക ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കീക്ക് 4 ബിറ്റ് ആയത്കൊണ്ട് ഇതുപോലത്തെ 16 പട്ടിക കാണും ഓരോ കീ വാല്യൂകൾക്കും കോറിലേഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നതിൻൽ 16 വ്യത്യാസമായ കോഫിഷ്യന്റ്സ് ഉണ്ടാകും അതിൽ നിന്ന് ഏറ്റവും വലിയ കോഫിഷ്യന്റ് തിരഞ്ഞെടുക്കും വ്യത്യസ്തമായ കീ വാല്യൂകൾക്കനുസരിച്ചു മാക്സിമം കോറിലേഷൻ കോഫിഷ്യന്റിൽ മാറ്റം വരുന്നത് ഏതൊക്കെ രീതിയിലാണെന്നു കാണിക്കുന്ന ഈ ഗ്രാഫ് ഈ വെബ് സൈറ്റിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഉദാഹരണത്തിൽ AES ബ്ലോക്ക് സൈഫർ ആണ് അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഡിവൈസ് ഒരു ബൈറ്റ് ആണ് AES കീയുടെ ഓരോ ഭാഗത്തിനും ആയതിനാൽ 256 സാധ്യമായ വാല്യൂസ് ഉണ്ടാകും ഓരോ കീക്കനുസരിച്ചു കണ്ടെത്തിയ കോറിലേഷൻ ആണ് Y axis ൽ തെറ്റായി ഊഹിച്ച കീക്ക് വളരെ ചെറിയ അതായത് 0 02 ൽ കുറവായ കോറിലേഷൻ ആണ് കിട്ടുക ഊഹം ശരിയാണെങ്കിൽ കീ 0x 73 ആയ ഈ കേസ് കോറിലേഷൻ വാല്യൂ ഹൈ ആണ് അതായത് ഈ ഹൈ പീക്ക് ശരിയായ കീ തിരിച്ചറിയാൻ അറ്റാക്ക് വേവ് സഹായിക്കുന്നു ഇറ്ററേഷനുകളുടെ എണ്ണമാണ് ഈ അറ്റാക്കിനെ ബാധിക്കുന്ന ഘടകം ഈ പട്ടികയിലെ ഓരോ റോയും ഹൈപോതെറ്റിക്കൽ പവർ കംപ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഡിവൈസിയിൽ നടത്തിയ പവർ മെഷർമെന്റ്സിനു അനുസൃതമായുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റോ ഉണ്ടെങ്കിൽ കൂടുതൽ കണിശമായി കീ റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ ഗ്രാഫ് മുൻപത്തെ പട്ടികയെ അപേക്ഷിച് കൂടുതൽ മെഷർമെന്റ്സിന്റെ ആവശ്യകതയെ ആണ് കാണിക്കുന്നത് റോകളുടെ എണ്ണം കാണിക്കുന്നത് മെഷർമെന്റ്സിന്റെ എണ്ണം ആണ് മെഷർമെന്റ്സിന്റെ എണ്ണം കൂടിക്കൂടി ഇവിടെ 10000 ഓളം ആകുമ്പോൾ രഹസ്യ കീയുടെ കണ്ടെത്തുന്നതിലെ കണിശതയും കൂടുന്നു ഉദാഹരണത്തിന് വളരെ കുറച്ചു അതായത് 100 ഓളം മെഷർമെന്റ്സ് ആണെങ്കിൽ കോറിലേഷൻ 0 05 ൽ കുറാവാണ് എന്നാൽ എണ്ണം വർധിപ്പിക്കുമ്പോൾ കോറിലേഷൻ 0 1 ആയി കൂടുന്നു വേറൊരുതരത്തിൽ പറഞ്ഞാൽ പവർ മെഷർമെന്റ്സ് എണ്ണം കൂടുന്നതിനനുസരിച് ഈ പീക്ക് കൂടുതൽ കൂടുതൽ സ്പഷ്ടമാകും ഉദാഹരണത്തിൽ ഈ അറ്റാക്കർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രഹസ്യ കീ ലഭിക്കുന്നതിനായി ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗത്തിനും ശരിയായ പവർ ഉപഭോഗത്തിനും ഇടക്കുള്ള പിയർസൺ കോറിലേഷൻ കോഫിഷ്യന്റ് ആണ് വേറെയും ധാരാളം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട് മ്യുച്ചൽ ഇൻഫർമേഷൻ എന്നറിയപ്പെടുന്ന ഒന്നാണ് അതിൽ ഏറ്റവും പ്രശസ്തമായത് അത് ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗത്തിന്റെയും ശരിയായ പവർ ഉപഭോഗത്തിനും ഇടക്കുള്ള മ്യുച്ചൽ ഡിപെൻഡൻസ് ആണ് കണക്കാക്കുന്നത് ഈ ഇക്വേഷൻ അതാണ് കാണിക്കുന്നത് നമ്മൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല നമ്മൾ മുൻപത്തെ ഉദാഹരണത്തിൽ ഹൈപോതെറ്റിക്കൽ പവർ ഉപഭോഗത്തിന്റെയും ശരിയായ പവർ ഉപഭോഗത്തിനും ഇടക്കുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പിയർസൺ കോറിലേഷൻ കോഫിഷ്യന്റ് ആണ് ഉപയോഗിച്ചത് ഒരു വലിയ കോറിലേഷൻ വാല്യൂ ഗണിക്കുന്നത് അറ്റാക്കർക്കു ശരിയായി കീ ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ബെയ്സ് അനാലിസിസ് ആണ് വേറൊരു ടെക്നിക്ക് അത് ഹൈപോതെസിസിന്റെ പ്രോബബിലിറ്റി കംപ്യൂട്ട് ചെയ്ത് ലീകേജ് തരുന്നു വളരെ മുൻപുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കംപാരിസൺ ആയിരുന്നു ഡിഫറെൻസ് ഓഫ് മീൻസ് ഇനി നമുക്ക് ഈ ഡിഫറെൻസ് ഓഫ് മീൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വിശദമായി നോക്കാം ഇവിടെ വീണ്ടും നമ്മൾ എടുക്കുന്നത് ഇൻപുട്ട് ആയി P യും രഹസ്യ കീയും ഫങ്ക്ഷൻ f ഉം ആണ് ഇവിടെയും അറ്റാക്കർ ചെയ്യുന്നത് കീ ഊഹിച്ചു അറിയാവുന്ന P യുടെ വാല്യൂ വച്ച് C കണ്ടുപിടിക്കുന്നു കീയുടെ ഊഹത്തിനനുസരിച്ചു നമുക്ക് 1111 1110 1101 എന്നീ C ഗെസ്സുകൾ ലഭിക്കുന്നു അടുത്തതായി അയാൾ ഈ C ഗെസ്സിലെ ഒരു ബിറ്റ് എടുക്കുന്നു ഉദാഹരണത്തിന് ഈ C ഗെസ്സിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ ഈ ബിറ്റ് ഈ വാല്യൂവിന് അനുസരിച്ചു അയാൾ ശരിയായ പവർ ഉപഭോഗത്തിന്റെ രണ്ടു ബക്കറ്റിലേക്കായി തരാം തിരിക്കുന്നു ബിറ്റ് 0 ന് ആദ്യത്തേതും 1 ന് രണ്ടാമത്തേതും ഉദാഹരണത്തിന് ഇവിടെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആയതിനാൽ ഈ പവർ അളവ് ബക്കറ്റ് 1 ലേക്ക് പോകും ഇതിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആയതിനാൽ ബക്കറ്റ് 0 ലേക്ക് പോകും അങ്ങനെ പോകും എല്ലാം അവസാനം ബക്കറ്റ് 0 ൻറെയും 1 ൻറെയും ശരാശരി കണ്ടെത്തും ഇതാണ് ആ പ്രത്യേക കീയുടെ ഡിഫറെൻസ് ഓഫ് മീൻസ് എന്നറിയപ്പെടുന്നത് ഈ ബക്കറ്റുകളുടെ വ്യത്യാസം മാക്സിമം ആയാൽ കീ ഗെസ്സ് ശരിയായിരിക്കും എന്നാണ് നിരീക്ഷണങ്ങൾ പറയുന്നത് ഡിഫ്റൻഷ്യൽ പവർ അറ്റാക്കിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു പതിറ്റാണ്ട് ആയിട്ടുണ്ട് ഈ കാലങ്ങൾക്കിടയിൽ ഇതിനു കുറെ കൌണ്ടർ മെഷേഴ്സ് ഉണ്ടായിട്ടുണ്ട് മൂന്നു ലെവലുകളിൽ ഇവ പ്രയോഗിക്കാം ഹാർഡ് വെയർ ലെവൽ ഇമ്പ്ലിമെന്റേഷൻ ലെവൽ പിന്നെ അൽഗോരിതം ലെവൽ ഹാർഡ് വെയർ ലെവലിൽ CMOS ലോജിക് മാറ്റി പവർ അനാലിസിസ് അറ്റാക്ക് ഏൽക്കാത്ത ലോജിക്കുകൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് WDDL പോലുള്ള ഗേറ്റുകൾ അവ ഉണ്ടാക്കിയിരിക്കുന്നത് പവർ ഉപഭോഗം കംപ്യുട്ടേഷന് അനുസരിച്ചുള്ള വിധത്തിലാണ് ഇമ്പ്ലിമെന്റേഷൻ ലെവലിൽ റാൻഡമൈസേഷൻ ഉപയോഗിച്ചുള്ള മാസ്കിങ് ത്രെഷോൾഡ് ഇമ്പ്ലിമെന്റേഷൻ പോലുള്ള ടെക്നിക്ക് ആണ് ഉപയോഗിക്കുന്നത് ഈ റാൻഡംനെസ്സ് പവർ ഉപഭോഗത്തിൽ നിന്ന് അറ്റാക്കിലേക്കു ലഭിക്കുന്ന വിവരങ്ങളുടെ അളവ് കുറയ്ക്കും അൽഗോരിതമിക് ലെവലിൽ ഗവേഷകർക്ക് പവർ അനാലിസിസ് അറ്റാക്ക് തടയാനുള്ള പ്രോട്ടോകോൾസും പ്രത്യേക സൈഫർ അൽഗോരിതങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രഹസ്യ കീ നേടിയെടുക്കൻ കഴിയുന്നത്ര വിവരങ്ങൾ ലഭിക്കുന്നത്ര ലീക്കേജ് ഇല്ലാത്ത വിധത്തിലാണ് DPA റെസിസ്റ്റൻസിന് വേണ്ടി നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ റീകീയിങ് എന്നെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് വർത്തിക്കുന്ന DRECON എന്നത് ഈ വിഭാഗത്തിലെ പ്രശസ്തമായ അൽഗോരിതം ആണ്